നമസ്കാരം അതിനാൽ ഇന്ന് നമ്മൾ ടോപ്പോളജിയെക്കുറിച്ച് ചർച്ച ചെയ്യും ടോപ്പോളജി എന്നാൽ നിങ്ങൾ എന്താണ് അർത്ഥമാക്കുന്നത് നെറ്റ്വർക്ക് എല്ലായ്പ്പോഴും സീരീസ് സർക്യൂട്ട് അല്ലെങ്കിൽ സമാന്തരമായി ബന്ധിപ്പിച്ചിട്ടുള്ളത് അല്ല എന്ന് നമുക്കറിയാം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി യഥാർത്ഥ സാഹചര്യത്തിൽ ഈ ഇലക്ട്രിക്കൽ സർക്യൂട്ട് യഥാർത്ഥത്തിൽ സീരീസ് അല്ലെങ്കിൽ സമാന്തരമായിരിക്കില്ല ഇത് രണ്ടും കൂടിച്ചേർന്നതായിരിക്കും അതിനാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട് വിശകലനത്തിന്റെ ലക്ഷ്യം നിങ്ങൾ നെറ്റ്വർക്കിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്ന ഘടകങ്ങൾക്കു കുറുകെ ഉള്ള വൈദ്യുതധാരകളും വോൾട്ടേജുകളും കണ്ടെത്തുക എന്നതാണ് നമ്മൾ സർക്യൂട്ട് വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയും നെറ്റ്വർക്കിന്റെ വിവിധ ശാഖകളിലുള്ള വൈദ്യുതധാരകളും ഘടകങ്ങൾക്കു കുറുകെ ഉള്ള വോൾടേജുകൾ കണ്ടെത്താൻ ശ്രമിക്കും സർക്യൂട്ട് വിശകലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത കാര്യങ്ങൾ വീണ്ടും ഓർക്കാം ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ വൈദ്യുതധാരകളും വോൾട്ടേജ് ഡ്രോപ്പുകളും നിർണ്ണയിക്കാൻ വിവിധ നിയമങ്ങളുണ്ട് നമ്മൾ കിർചോഫിന്റെKirchhof's നിയമത്തെക്കുറിച്ച് ചർച്ചചെയ്തു ഓമിന്റെohm's law നിയമത്തെക്കുറിച്ചും നമ്മൾ ചർച്ചചെയ്തു ഓമിന്റെ നിയമം കറന്റ് കണ്ടെത്തുന്നത് അല്ലാതെ മറ്റൊന്നും അല്ല അതായത് ഇപ്പോൾ ഇവിടെ R ന് പകരം Z ആണ് ഉപയോഗിക്കുന്നത് കാരണം Z എന്നത് കോംപ്ലക്സ് ഇംപെഡൻസാണ് അത് സാധാരണയായി നിങ്ങൾക്ക് സർക്യൂട്ടിൽ എസി സിനുസോയ്ഡൽ തരംഗ രൂപവും ഇംപെഡൻസിലുടനീളം വോൾട്ടേജും ഉള്ളപ്പോൾ ദൃശ്യമാകും ഇപ്പോൾ കണക്റ്റുചെയ്തിരിക്കുന്ന ഒരു ശ്രേണിയിലെ മൊത്തം ഇംപെഡൻസ് കണ്ടെത്തുന്നതിന് ഇംപെഡൻസ് സീരീസിലാണെങ്കിൽ അത് സീരീസിൽ കണക്റ്റുചെയ്തിരിക്കുന്ന എല്ലാ ഇംപെൻഡൻസുകളുടെയും സംഗ്രഹമായിരിക്കും അല്ലെങ്കിൽ സമാന്തരമായി ബന്ധിപ്പിച്ച ഇംപെൻഡൻസുകൾ ഉണ്ടെങ്കിൽ ഇംപെഡൻസിനെ അട്മിറ്റെൻസ് ആയി പരിവർത്തനം ചെയ്യുന്നതാണ് നല്ലത് അട്മിറ്റെൻസ് എന്നാൽ Y ആണ് അത് ഇംപെൻഡൻസുകളുടെ റേസിപ്രോക്കൽ നു തുല്യമാണ് അതെല്ലാം കൂടി കൂട്ടി നിങ്ങൾക് അട്മിറ്റെൻസ് കണ്ടെത്താവുന്നത് ആണ് ഇപ്പോൾ നമുക്ക് ഇംപെഡൻസും അഡ്മിറ്റൻസും വിശദമായി നോക്കാം അതിലൂടെ എസി സർക്യൂട്ടമായി ബന്ധമുള്ള ഈ രണ്ട് വസ്തുക്കളുടെയും ആശയങ്ങൾ നിങ്ങൾക്ക് മനസിലാക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത വോൾട്ടേജ് കറന്റ് ബന്ധം ഇതുപോലെയായിരുന്നു നിങ്ങൾക്ക് വി ഉണ്ടായിരുന്നു ഫെയ്സർ മൂല്യം ഐആർ അല്ലാതെ മറ്റൊന്നുമല്ല കാരണം ഇത് റെസിസ്റ്ററിന്റെ കാര്യത്തിലായിരുന്നു ഇൻഡക്റ്ററിനായി കപ്പാസിറ്ററിനായി എന്നിവയായിരുന്നു ബന്ധം ഇപ്പോൾ നിങ്ങൾ ഫെയ്സർ വോൾട്ടേജിന്റെയും ഫെയ്സർ കറന്റിന്റെയും അനുപാതത്തിൽ സമവാക്യം എഴുതുകയാണെങ്കിൽ അതിനാൽ നിങ്ങൾ എഴുതുന്നവയെ ഒരു പൊതുവായ പദത്തിൽ മൂന്ന് സമവാക്യങ്ങളെയും പ്രതിനിധീകരിക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ എങ്ങനെ എഴുത്തും ഇപ്പോൾ ഇവിടെ Z എന്നത് ഇംപെഡൻസ് എന്ന് വിളിക്കുന്ന ഒരു അളവാണ് ഈ ഇംപെൻഡൻസിന്റെ വിവിധ സവിശേഷതകൾ എന്തൊക്കെയാണ് ഒരു സർക്യൂട്ടിന്റെ ഇംപെഡൻസ് വോൾട്ടേജ് ഫെയ്സറിന്റെയും കറന്റ് ഫെയ്സറിന്റെയും അനുപാതമാണ് ഇത് ഓമുകളിലും അളക്കുന്നു കാരണം റെസിസ്റ്റർ അല്ലെങ്കിൽ കപ്പാസിറ്റർ അല്ലെങ്കിൽ ഇൻഡക്റ്ററിന്റെ കാര്യത്തിൽ മുമ്പത്തെ പ്രഭാഷണങ്ങളിൽ നമ്മൾ കണക്കാക്കിയ റിയാക്ടൻസ് എന്തു തന്നെയായാലും അവയുടെ അളവ് ഓംസിലായിരുന്നു സിനുസോയ്ഡൽ വൈദ്യുത പ്രവാഹത്തിലേക്ക് സർക്യൂട്ട് കാണിക്കുന്ന എതിർപ്പിനെ ഇപ്പോൾ ഇംപെഡൻസ് പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഇംപെഡൻസ് പദങ്ങൾ ചിത്രത്തിലേക്ക് വരുമ്പോഴെല്ലാം അതിനർത്ഥം സർക്യൂട്ട് എസി സർക്യൂട്ട് ആണെന്നും കറന്റ് സിനുസോയ്ഡൽ കറന്റ് ആണെന്നും ആണ് ഇപ്പോൾ ഇംപെഡൻസ് രണ്ട് ഫെയ്സറിന്റെ അനുപാതമാണെങ്കിലും അതായത് ഫെയ്സർ വി ഫെയ്സർ I കൊണ്ട് ഹരിക്കുന്നു പക്ഷേ ഇത് ഒരു ഫെയ്സറല്ല കാരണം ഇതിന് സിനുസോയ്ഡൽ ആയി വ്യത്യാസപ്പെടുന്ന മൂല്യം ഇല്ല ഇംപെഡൻസിനായുള്ള കോംപ്ലക്സ് അളവിനെ സാധാരണയായി എന്ന് പ്രതിനിധീകരിക്കുന്നു ഇവിടെ R ആണ് യഥാർത്ഥ പദം ഈ യഥാർത്ഥ പദം ഇംപെഡൻസ് പദത്തിലെ പ്രതിരോധമല്ലാതെ മറ്റൊന്നുമല്ല തുടർന്ന് ന്റെ ഇമാജിനറി ഭാഗമാണ് X ഈ ഇമാജിനറി ഭാഗത്തെ റിയാക്ടൻസ് എന്ന് വിളിക്കുന്നു ഇപ്പോൾ എക്സ് പോസിറ്റീവ് ആയിരിക്കുമ്പോൾ ഇംപെഡൻസ് ഇൻഡക്റ്റീവ് ആണ് ഇവിടെ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഇത് പോസിറ്റീവ് അളവാണെങ്കിൽ അതിനർത്ഥം ഇംപെഡൻസ് ഇൻഡക്റ്റീവ് ആണെന്നും X നെഗറ്റീവ് ആയിരിക്കുമ്പോൾ കപ്പാസിറ്റീവ് ആയിരിക്കും എന്നും ആണ് അതിനാൽ നിങ്ങളുടെ ഇംപെഡൻസ് കപ്പാസിറ്റീവ് ഇംപെഡൻസായിരിക്കും ഇപ്പോൾ ഇംപെഡൻസ് ആണ് അതിനാൽ കറന്റ് വോൾടേജിനെ ലാഗ് ചെയ്യുന്നതിനാൽ അത് ഇൻഡക്റ്റീവ് ആയിരിക്കും ആണെങ്കിൽ അത് കപ്പാസിറ്റീവ് ആയിരിക്കും കാരണം കറന്റ് വോൾടേജ് ഇനെ ലീഡ് ചെയ്യുന്നു പോളാർ രൂപത്തിൽ കോംപ്ലക്സ് Z നെ പ്രതിനിധീകരിക്കണമെങ്കിൽ നമ്മൾ എന്ന് എഴുതുന്നു അതിനാൽ ചുരുക്കത്തിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ പോളാർ രൂപത്തിൽ എന്ന് പ്രതിനിധീകരിക്കാം ഇത് നിങ്ങൾക്ക് കണക്കുകൂട്ടലിലെ ആവശ്യകതയെ അടിസ്ഥാനമാക്കി പരസ്പരം മാറ്റാം കൂടാതെ നിങ്ങൾക്ക് ആയ റെക്റ്റാംഗുലാർ ഫോം ഉപയോഗിച്ച് കണക്കാക്കാം ഇവിടെ ആണ് അല്ലെങ്കിൽ പോളാർ റെക്റ്റാംഗുലാർ രൂപത്തിൽ പരിവർത്തനം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കണക്കുകൂട്ടലിൽ ഇംപെൻഡൻസുകളുടെ റേസിപ്രോക്കൽ ഉപയോഗിക്കുന്നത് സൌകര്യപ്രദമാണ് നിങ്ങൾക്ക് സമാന്തരമായി കണക്റ്റുചെയ്ത സർക്യൂട്ടുകൾ ഉള്ളപ്പോൾ അതായത് ഇതുപോലുള്ള സമാന്തരമായി ഇംപെഡൻസ് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാകും അതിനാൽ ഇത് Z1 Z2 Z3 ആണെങ്കിൽ തുല്യമായ ഇംപെഡൻസ് നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ടെങ്കിൽ ഇംപെൻഡൻസുകളുടെ റേസിപ്രോക്കൽ എടുക്കുന്നതാണ് നല്ലത് അതിനാൽ Z1 ന്റെ റേസിപ്രോക്കൽ Y1 ആണെങ്കിൽ Z2 ന്റെ റേസിപ്രോക്കൽ Y2 ഉം സമാനമായി Z3 ന്റെ റേസിപ്രോക്കൽ Y3 ഉം ആണ് അതിനാൽ തുല്യമായ അട്മിറ്റെൻസ് Y എന്നാൽ Y1 പ്ലസ് Y2 പ്ലസ് Y3 എന്നിവയ്ക്ക് തുല്യമാണെന്നും നിങ്ങൾക്ക് ഇംപെഡൻസ് കണ്ടെത്തണമെങ്കിൽ തുല്യമായ ഇംപെഡൻസ് Z എന്നാൽ 1Y ആയിരിക്കുമെന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും അതിനാൽ നിങ്ങൾക്ക് സമാന്തരമായി ബന്ധിപ്പിച്ച നെറ്റ്വർക്കുകൾ ഉള്ളപ്പോൾ ഇംപെഡൻസിനെ അട്മിറ്റെൻസ് ആയി പരിവർത്തനം ചെയ്യുന്നതാണ് നല്ലത് ഇപ്പോൾ അട്മിറ്റെൻസ് ഇംപെഡൻസിന്റെ റേസിപ്രോക്കൽ അല്ലാതെ മറ്റൊന്നുമല്ല ഇത് സീമെൻസിൽ അളക്കുന്നു അല്ലെങ്കിൽ ഇത് മോ യിലും അളക്കുന്നുവെന്ന് നിങ്ങൾക്ക് പറയാം അതിനാൽ മോ സീമെൻസ് എന്നിവ രണ്ടും നിങ്ങൾക്ക് ഒരേപോലെ ഉപയോഗിക്കാംഅട്മിറ്റെൻസ് ഗണിതശാസ്ത്രപരമായി ആയി പ്രകടിപ്പിക്കുന്നു ഇവിടെ G നെ കണ്ടക്ടൻസ് എന്നും Y യുടെ ഇമാജിനറി ഭാഗമായ B യെ സസെപ്റ്റൻസ് എന്നും വിളിക്കുന്നു എന്നാൽ അല്ലാതെ മറ്റൊന്നുമല്ല Z എന്നത് അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾ ലളിതമാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കും അതിനാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന രണ്ട് ഘടകങ്ങളിൽ നിന്നും റിയൽ ഉം ഇമാജിനറിയുമായ പദങ്ങൾ താരതമ്യം ചെയ്താൽ ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള സർക്യൂട്ട് വിശകലനം ചെയ്യേണ്ട ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങൾക്ക് ഈ അട്മിറ്റെൻസ് ഉപയോഗിക്കാൻ കഴിയും ഇനി നമുക്ക് നെറ്റ്വർക്കിനെക്കുറിച്ച് സംസാരിക്കാം ഓരോ തവണയും ചർച്ച ചെയ്തത് ഇലക്ട്രിക്കൽ സർക്യൂട്ട് ആണ് നെറ്റ്വർക്ക് അല്ല അതിനാൽ നെറ്റ്വർക്കും സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഒരു നെറ്റ്വർക്കും സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം നെറ്റ്വർക്ക് ഘടകങ്ങളുടെയോ ഉപകരണങ്ങളുടെയോ പരസ്പര ബന്ധമാണ് എന്നതാണ് അതിനർത്ഥം ഇത് ഒരു ക്ലോസ്ഡ് ലൂപ്പ് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല അതിനാൽ ഇതിന് ക്ലോസ്ഡ് ലൂപ്പുകൾ ഉണ്ടാകാം പക്ഷേ ചില ഓപ്പൺ ലൂപ്പുകളും ഉണ്ടാകാം അതിനാൽ സർക്യൂട്ടുകളുടെ വിശാലമായ പദമാണ് നെറ്റ്വർക്ക് സർക്യൂട്ടിന്റെ കാര്യത്തിൽ ഇത് ഒന്നോ അതിലധികമോ ക്ലോസ്ഡ് ലൂപ്പ് നൽകുന്ന നെറ്റ്വർക്കാണ് അതിനാൽ നെറ്റ്വർക്കും സർക്യൂട്ടും തമ്മിലുള്ള വ്യത്യാസം നെറ്റ്വർക്ക് സാധാരണയായി ഇലക്ട്രിക്കൽ സർക്യൂട്ടിനുള്ള കൂടുതൽ പൊതുവായ പദമായി കണക്കാക്കപ്പെടുന്നു അവിടെ സർക്യൂട്ട് ഓപ്പണോ ക്ലോസ്ഡോ ആകാം ഇലക്ട്രിക്കൽ സർക്യൂട്ടിന്റെ കാര്യത്തിൽ കറന്റ് ഒഴുകുന്നതിനുള്ള ഒരു മടക്ക പാത ഉണ്ടെന്ന് ഉറപ്പാക്കുന്നു അതിനാൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ ഇവ രണ്ടും പരസ്പരം മാറിമാറി ഉപയോഗിച്ചു കാരണം നെറ്റ്വർക്ക് കൂടുതൽ പൊതുവായ പദമാണ് നിങ്ങൾ ഈ പ്രത്യേക കോഴ്സിൽ കുറച്ചു സമയം നെറ്റ്വർക്ക് എന്നും കുറച്ചു സമയം സർക്യൂട്ട് എന്നും ഉപയോഗിച്ചു എന്നാൽ അതിനർത്ഥം ഒരേ കാര്യമാണ് ഇനി നമുക്ക് ടോപ്പോളജിയെക്കുറിച്ച് സംസാരിക്കാം അതിനാൽ നെറ്റ്വർക്ക് ടോപ്പോളജി എന്താണ് ടോപ്പോളജി നെറ്റ്വർക്കിലെ ഘടകങ്ങളുടെ സ്ഥാനവും നെറ്റ്വർക്കിന്റെ ജോമെട്രിക് കോൺഫിഗറേഷനുമായി ബന്ധപ്പെട്ട സ്വഭാവം ആണ് അതിനാൽ എന്താണ് അർത്ഥമാക്കുന്നത് സാധാരണയായി നിങ്ങൾ ഒരു പ്രത്യേക നെറ്റ്വർക്ക് കാണുമ്പോൾ നിങ്ങൾ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് എന്ന് വിചാരിക്കുയാണെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള സർക്യൂട്ട് എടുക്കുകയാണെങ്കിൽ അതിനാൽ എല്ലാം തുല്യമായ റെസിസ്റ്റൻസ് R ആണെന്നും ഇത് വോൾട്ടേജ് V ആണെന്നും കരുതുക അതിനാൽ കണക്റ്റിവിറ്റി വിവരങ്ങൾ കണ്ടെത്താൻ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള സർക്യൂട്ട് ഇതാണ് അതിനാൽ കണക്റ്റിവിറ്റി വിവരങ്ങൾ അർത്ഥമാക്കുന്നത് വിവിധ ഘടകങ്ങൾ എങ്ങനെ ബന്ധിപ്പിച്ചിരിക്കുന്നുവെന്ന് കണ്ടെത്തുക എന്നാണ് ഇപ്പോൾ നിങ്ങൾ ഈ നോഡിനെ a എന്നും ഈ നോഡ് b എന്നും ഈ നോഡ് c എന്നും നൽകുകയും ഇത് o ആണ് ഗ്രൌണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്ഭവം എന്ന് പറയുകയും ചെയ്യാം ഈ സർക്യൂട്ടിന്റെ ടോപ്പോളജി കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും നെറ്റ്വർക്കിന്റെ എല്ലാ ഘടകങ്ങളെയും ലൈനുകൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുന്ന ഗ്രാഫ് നിർമ്മിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് കാരണം നിങ്ങൾ സൃഷ്ടിക്കുന്ന ഗ്രാഫ് നെറ്റ്വർക്കിന്റെ ടോപ്പോളജിക്കൽ സവിശേഷതകളെ വിവരിക്കുന്നു അതിനാൽ ഒരു പ്രത്യേക നെറ്റ്വർക്കിലെ എല്ലാ ഘടകങ്ങളുടെയും കണക്റ്റിവിറ്റി വിവരങ്ങൾ അർത്ഥമാക്കുന്ന ടോപ്പോളജിക്കൽ പ്രോപ്പർട്ടി വിവരിക്കുന്ന ഒരു ഗ്രാഫ് നിങ്ങൾ സർക്യൂട്ടിൽ നിന്ന് സൃഷ്ടിക്കുകയാണെങ്കിൽ ആ പ്രത്യേക നെറ്റ്വർക്ക് ആ പ്രത്യേക സർക്യൂട്ടിന്റെ ടോപ്പോളജി ആയിരിക്കും ഇവിടെ എ സി എന്നതിലേക്ക് കണക്റ്റുചെയ്തിരിക്കുന്നതായി നിങ്ങൾ കാണുന്നുവെങ്കിൽ R ചേർക്കുന്നതിനുപകരം നമ്മൾ ലളിതമായി ഒരു ലൈൻ ചേർക്കുന്നു എ സി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു തുടർന്ന് റെസിസ്റ്റർ R എ ബി ക്കു ഇടയിലാണ് അതിനാൽ നമ്മൾ വീണ്ടും ഒരു ലൈൻ സൃഷ്ടിക്കുന്നു b മുതൽ c വരെ നമ്മൾ ആ ലൈനിനെ ബന്ധിപ്പിക്കുന്നു c മുതൽ o അത് വീണ്ടും ഒരു ലൈൻ ആണ് അതിനാൽ ഈ R ന് ഇത് ഒരു ലൈൻ ആണ് b മുതൽ o ന് നമ്മൾ വീണ്ടും ലൈൻ സൃഷ്ടിക്കുന്നു a മുതൽ o ഇടയിൽ ഒരു ലൈൻ സൃഷ്ടിക്കുന്നു കാരണം ഇവിടെ ഒരു വോൾടേജ് സോഴ്സ് ആണ് അതിനാൽ ഈ പ്രത്യേക സർക്യൂട്ടിനെ ഒരു ഗ്രാഫായി തുല്യമായി പ്രതിനിധീകരിക്കും അത് വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ് ഉറവിടങ്ങൾ അല്ലെങ്കിൽ സർക്യൂട്ടിലെ റെസിസ്റ്റീവ് കപ്പാസിറ്റീവ് അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ഘടകങ്ങൾ ആകാം നമുക്ക് ലഭിക്കുന്നതിനെ സർക്യൂട്ടിന്റെ ഗ്രാഫ് അല്ലെങ്കിൽ നെറ്റ്വർക്കിന്റെ ഗ്രാഫ് എന്ന് വിളിക്കുന്നു ഇത് വളരെ പ്രധാനമാണ് കാരണം ഇതുമായി ബന്ധപ്പെട്ട വിവിധ ടോപ്പോളജിക്കൽ ഗുണങ്ങളുണ്ട് ഇത് സർക്യൂട്ട് വിശകലനം ചെയ്യാൻ സഹായിക്കും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചത് നെറ്റ്വർക്കിന്റെ അസ്ഥികൂടമാണ് ഇവിടെ നിങ്ങൾ കാണുന്ന ഘടകങ്ങൾ നോഡുകൾ പോലെയാകും നിങ്ങൾ ലൂപ്പുകൾ കാണും അല്ലെങ്കിൽ നിങ്ങൾ ശാഖകൾ കാണും ഇപ്പോൾ നിങ്ങൾ ഗ്രാഫിന്റെ ഓരോ വരികൾക്കും ഒരു അമ്പടയാളം ഉപയോഗിച്ച് റഫറൻസ് ദിശകൾ ചേർക്കുകയാണെങ്കിൽ അതിനെ ഓറിയന്റഡ് ഗ്രാഫ് എന്ന് വിളിക്കുന്നു അതിനർത്ഥം നിങ്ങൾ സർക്യൂട്ട് വിശകലനം ചെയ്യുമ്പോൾ പ്രാരംഭ ദിശ കറന്റ് ആയിരിക്കും എന്ന് നിങ്ങൾ ഉഹിക്കുകയും അതിനാൽ നിങ്ങൾ വൈദ്യുതധാരയുടെ ദിശ കാണിക്കുന്നുവെങ്കിൽ ഇത് ഒരു ഓറിയന്റഡ് ഗ്രാഫായി മാറും ഇപ്പോൾ ഗ്രാഫിലെ ലൈനുകളേ ശാഖകൾ എന്നും ജംഗ്ഷനെ നോഡ് എന്നും വിളിക്കും ഇപ്പോൾ നെറ്റ്വർക്കിന്റെ ടോപ്പോളജിക്കൽ വിവരങ്ങൾ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് കാരണം നെറ്റ്വർക്കിന്റെ വലിപ്പവും രൂപവും വലിച്ചുനീട്ടുകയോ വളച്ചൊടിക്കുകയോ വ്യത്യസ്തപ്പെടുത്തുകയോ ചെയ്യുമ്പോൾ ബാധിക്കാത്ത നെറ്റ്വർക്കിന്റെ സ്വഭാവം ആണ് ടോപ്പോളജി കാണിക്കുന്നത് അതിനർത്ഥം നിങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ ഗ്രാഫിന്റെ വലുപ്പം വളച്ചൊടിക്കുകയോ വ്യത്യസ്തപ്പെടുത്തുകയോ ചെയ്തുകൊണ്ട് നിങ്ങൾ ഓറിയന്റേഷൻ മാറ്റുകയാണെങ്കിൽ എന്നിട്ടു നിങ്ങൾ കണക്റ്റിവിറ്റി വിവരങ്ങൾ ഉൾകൊള്ളിക്കുകയും അതായത് എല്ലാത്തരം വലിച്ചുനീട്ടലുകളിലോ അല്ലെങ്കിൽ നിങ്ങൾ സൃഷ്ടിച്ച വികലതകൾ ഉൾക്കൊള്ളിച്ചാൽ കൂടി ആ സർക്യൂട്ട് എല്ലായ്പ്പോഴും സമാനമായിരിക്കും കാരണം നെറ്റ്വർക്കിന്റെ ടോപ്പോളജി സമാനമാണ് അതിനാൽ ഈ ഉദാഹരണത്തിൽ നിങ്ങൾ ഇത് കണ്ടാൽ ഒരു പ്രത്യേക സർക്യൂട്ടിന്റെ ടോപ്പോളജി ഇതുപോലെയാണ് ഇവിടെ a c b d ab എന്നിവ ഈ രീതിയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ ഈ രീതിയിൽ ടോപ്പോളജി സൃഷ്ടിക്കുന്ന മറ്റൊരു സർക്യൂട്ട് ഉണ്ട് ഇതുപോലെ കണക്റ്റുചെയ്തു ത്രികോണാകൃതിയിൽ സർക്യൂട്ടുകൾ ബന്ധിപ്പിച്ചിരിക്കുന്ന മൂന്നാമത്തേത് ഇപ്പോൾ നിങ്ങൾ ഈ മൂന്നും ആദ്യ നോട്ടത്തിൽ ഇവ മൂന്നും വ്യത്യസ്തമാണെന്ന് തോന്നുന്നു പക്ഷേ ഈ മൂന്ന് സർക്യൂട്ടുകളും തുല്യമാണ് എന്തുകൊണ്ടാണ് മൂന്ന് ടോപ്പോളജികളിലെയും കണക്റ്റിവിറ്റി വിവരങ്ങൾ തുല്യമായത് അതിനാൽ ഈ ഉദാഹരണത്തിൽ എ ഇവിടെ സി യുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എ ഇവിടെ സി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെയും എ സി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എ d യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എ ഡി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു എ ഡി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു സി ബി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ സി ബി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെയും സി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ബി ഇവിടെ ഡി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ബി ഇവിടെ ഡി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെയും ബി ഡി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ ഈ രീതിയിൽ സി ഡി യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെ സി ഈ രീതിയിൽ ഡിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇവിടെയും സി ഈ രീതിയിൽ ഡിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു അവസാനമായി നമ്മൾ എ മുതൽ ബി വരെ നേർരേഖയിലൂടെ ബന്ധിപ്പിക്കുന്നു ഇവിടെ നമ്മൾ ഇതുപോലെ എ ബിയിലേക്ക് ബന്ധിപ്പിക്കുന്നു ഇപ്പോൾ കണക്റ്റിവിറ്റി വിവരങ്ങൾ ഒന്ന് തന്നെ ആയതിനാൽ ടോപ്പോളജിയും ഒന്നുതന്നെയാണ് എന്തുകൊണ്ട് ഇത് പ്രാധാന്യമർഹിക്കുന്നു കാരണം ചിലപ്പോൾ സർക്യൂട്ടിൽ ചിത്രം മറ്റൊരു രീതിയിൽ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമാനമായ ഒരു സർക്യൂട്ടായി പരിവർത്തനം ചെയ്യാൻ കഴിയും അവിടെ കറന്റിന്റെ ഒഴുക്കും ഘടകങ്ങൾക് കുറുകെ ഉള്ള വോൾട്ടേജ് ഡ്രോപ്പും വിശകലനം ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് ടോപ്പോളജി വിവരങ്ങൾ വളരെ പ്രധാനമായത് അവിടെ നിങ്ങൾക്ക് സർക്യൂട്ടിന്റെ ടോപ്പോളജി കോൺഫിഗറേഷൻ മനസിലാക്കാൻ കഴിയും മാത്രമല്ല നിങ്ങൾക്ക് വിശകലനം ചെയ്യാൻ എളുപ്പമുള്ള തരത്തിൽ ആ പ്രത്യേക സർക്യൂട്ടിനെ വലിച്ചുനീട്ടാനോ വളച്ചൊടിക്കാനോ വെത്യസ്തപ്പെടുത്തുവാനോ കഴിയും അതിനാൽ ചർച്ച ചെയ്ത മൂന്ന് ഗ്രാഫുകൾ വ്യത്യസ്തമാണെങ്കിലും അവ യഥാർത്ഥത്തിൽ സമാനമായ ടോപ്പോളജികളാണ് എന്തുകൊണ്ട് എന്നാൽ ശാഖകളും നോഡും തമ്മിലുള്ള ബന്ധം ഈ സാഹചര്യത്തിൽ സമാനമാണ് ചിലപ്പോൾ ഇലക്ട്രിക്കൽ സർക്യൂട്ടിലെ ടോപ്പോളജിക്കൽ ഘടന വളരെ സ്ഥിരമായി ഉണ്ടാകാറുണ്ട് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ നമ്മൾ അവർക്ക് ചില പ്രത്യേക പേരുകൾ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള സർക്യൂട്ട് നിങ്ങൾ കണ്ടാൽ ഞങ്ങൾ അവരെ ടി നെറ്റ്വർക്ക് എന്ന് വിളിച്ചിരുന്നു ഇതുപോലെയാണെങ്കിൽ അതായത് ഇങ്ങനെ റെസിസ്റ്റർ കണക്റ്റുചെയ്തിരിക്കാം ഇതിനെ പൈ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു സർക്യൂട്ട് ടോപ്പോളജി ഇതുപോലെയാണെങ്കിൽ അതിനെ ഒരു ലാഡ്ഡർ നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു ടോപ്പോളജി ഇതുപോലെയാകുമ്പോൾ രണ്ട് റെസിസ്റ്റൻസുകൾ ഒരു റെസിസ്റ്ററുമായി സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുമ്പോഴും അതിനിടയിൽ നിങ്ങൾക്ക് മറ്റൊരു റെസിസ്റ്റർ ഉണ്ടാവാം അല്ലെങ്കിൽ അവയെല്ലാം ഇംപെൻഡൻസുകളാണെന്ന് നിങ്ങൾക്ക് പറയാം അതിനെ ബ്രിഡ്ജ്ഡ് ടി നെറ്റ്വർക്ക് എന്ന് വിളിക്കുന്നു അതുപോലെ ഇത് ബ്രിഡ്ജ് ഫാഷനിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബ്രിഡ്ജ് നെറ്റ്വർക്ക് എന്നും ഇതിനെ ഏറ്റവും പുതിയ നെറ്റ്വർക്ക് എന്നും വിളിക്കുന്നു അതിനാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ടുകളിൽ നിങ്ങൾ നേരിടുന്ന ഏറ്റവും സാധാരണമായ ടോപ്പോളജികളാണ് ഇവ അതിനാൽ നിങ്ങൾക്ക് ടോപ്പോളജിക്കൽ വിവരങ്ങൾ മനസിലാക്കാൻ കഴിയുമെങ്കിൽ സർക്യൂട്ട് വിശകലനം ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ് ഇനി നമുക്ക് സബ് ഗ്രാഫ് നെക്കുറിച്ച് സംസാരിക്കാം യഥാർത്ഥ ഗ്രാഫിൽ നിന്ന് ശാഖകൾ നീക്കം ചെയ്താൽ നൽകിയ ഗ്രാഫിന്റെ സബ് ഗ്രാഫ് രൂപപ്പെടുന്നു അതിനാൽ നിങ്ങൾ ഒരു ബ്രാഞ്ച് നീക്കംചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നിങ്ങൾ നീക്കം ചെയ്താൽ അത് യഥാർത്ഥ ഗ്രാഫിന്റെ സബ് ഗ്രാഫ്ഫായി മാറും ഇനി എന്താണ് ട്രീ നിങ്ങളുടെ സർക്യൂട്ട് വിശകലനത്തിന് പ്രധാനമായ ഒരു തരം സബ് ഗ്രാഫാണ് ട്രീ ഗ്രാഫിൽ നിന്ന് ഒരു ശാഖ നീക്കം ചെയ്താൽ ഇത് രൂപം കൊള്ളുന്നു അതിനാൽ ട്രീയെ ഒരു സബ് ഗ്രാഫ്ഫായി കണക്കാക്കാം പക്ഷേ ഇതിന് ചില പ്രത്യേക ഗുണങ്ങളുണ്ട് എന്താണ് ആ സവിശേഷതകൾ n നോഡുകളുടെ ട്രീ ഒരു പ്രത്യേക ഗ്രാഫിൽ n നോഡുകൾ ഉണ്ടെന്നും എല്ലാ n നോഡുകളും അടങ്ങിയ ട്രീ നിങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും കരുതുക അതിന് ഇനിപ്പറയുന്ന സവിശേഷതകൾ ഉണ്ടാകും അതിൽ ഗ്രാഫുകളുടെ എല്ലാ നോഡുകളും അടങ്ങിയിരിക്കും അതിൽ n മൈനസ് 1 ബ്രാഞ്ച് അടങ്ങിയിരിക്കും കൂടാതെ ക്ലോസ്ഡ് ലൂപ്പുകൾ ഇല്ല അതിനാൽ ഇവ ട്രീ യുടെ മൂന്ന് പ്രധാന സവിശേഷതകളാണ് ഈ ചിത്രത്തിൽ നിന്ന് ഈ സവിശേഷതകൾ മനസിലാക്കാം ട്രീ കണ്ടെത്താൻ നിങ്ങളോടു ആവശ്യപ്പെടുകയാണെങ്കിൽ ആദ്യം അതിൽ എല്ലാ നോഡുകളും അടങ്ങിയിരിക്കും നോഡ് എ ബി സി ഒ എന്നിവ ഗ്രാഫിന്റെ ഭാഗമായിരിക്കണം എന്നാണ് ഇതിനർത്ഥം അതിൽ n മൈനസ് ഒരു ശാഖ അടങ്ങിയിരിക്കും അതിനാൽ നമുക്ക് 1234 നോഡുകൾ ഉണ്ട് അതിനർത്ഥം ഇതിന് മൂന്ന് ശാഖകളായ n മൈനസ് ഒന്ന് ഉണ്ടായിരിക്കുമെന്നാണ് മൂന്ന് ശാഖകൾ എന്തായിരിക്കും മൂന്ന് ശാഖകളും ഇതായിരിക്കാം കാരണം ഇത് അടച്ച പാതയില്ലെന്ന് ഉറപ്പുവരുത്തുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുചെയ്യാൻ കഴിയും നിങ്ങൾക്ക് നോഡുകൾ ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ ശാഖകൾ ഒന്ന് ഇതാണ് അത് രണ്ടാമത്തേതും അത് മൂന്നാമത്തേതും ആകാം ഈ സാഹചര്യത്തിലും എല്ലാ നോഡുകളും കണ്ടെത്തിയതായി മനസിലാക്കാൻ സാധിക്കും പക്ഷേ അടച്ച ലൂപ്പില്ല അല്ലെങ്കിൽ സമാനമായി നിങ്ങൾക്ക് ഒരു കാര്യം കൂടി ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് ഇതുപോലുള്ള മറ്റ് രീതികളിലൂടെ ബന്ധിപ്പിക്കാൻ കഴിയും അതിനാൽ അവിടെ വീണ്ടും ഒരു ട്രീ ഉണ്ടായേക്കാം അതായത് ഒരു ഗ്രാഫിൽ വിവിധ തരാം ട്രീകൽ ഉണ്ടാകാം ഒരു ഗ്രാഫിന്റെ വ്യത്യസ്ത ഭാഗങ്ങൾ ആക്കിയാൽ എന്നാൽ നിങ്ങൾ ചില സെഷനുകളിലൂടെ കണക്റ്റുചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ o മുതൽ c c മുതൽ b b മുതൽ a എന്നിവയിലേക്ക് കണക്റ്റുചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ട്രീ കണ്ടെത്തും എല്ലാ സാഹചര്യങ്ങളിലും കൃത്യമായി മൂന്ന് ശാഖകൾ ഉണ്ടാകും കാരണം അതിൽ നാല് നോഡുകൾക്ക് n മൈനസ് 1 ബ്രാഞ്ച് അടങ്ങിയിരിക്കും അതിൽ എല്ലായ്പ്പോഴും മൂന്ന് ശാഖകളുണ്ടാകും നിങ്ങൾ കൂടുതൽ കണക്റ്റുചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരു അടച്ച ലൂപ്പ് ഉണ്ടായിരിക്കും ഇത് അനുവദനീയമല്ല അതിനാൽ ട്രീ കു കൃത്യമായി അടച്ച പാതയില്ല ഇപ്പോൾ ശാഖകൾ ഒരു ട്രീ രൂപപ്പെടുത്തുന്നു അതിനാൽ നിങ്ങൾ ഈ പ്രത്യേക ശാഖ നീക്കംചെയ്താൽ നിങ്ങൾക്ക് ഒരു ട്രീ ലഭിക്കും അതിനാൽ ഇതിനെ കോർഡ് എന്ന് വിളിക്കുന്നു നെറ്റ്വർക്കിന്റെ വിശകലനത്തിനായി കറന്റ് വേരിയബിളിന്റെ ശരിയായ തിരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ടെങ്കിൽ ട്രീ എന്ന ആശയം ഉപയോഗിക്കുന്നു അതിനാൽ സർക്യൂട്ട് വിശകലനത്തിനായി കറന്റ് വേരിയബിളുകൾ ശരിയായി തിരഞ്ഞെടുക്കേണ്ടിവരുമ്പോൾ ഇത് വളരെ പ്രധാനമാണ് ഇപ്പോൾ നെറ്റ്വർക്ക് ടോപ്പോളജിയിൽ കണ്ട ഘടകങ്ങളെക്കുറിച്ച് സംസാരിക്കാം ഒന്ന് ബ്രാഞ്ച് വോൾട്ടേജ് ഉറവിടം അല്ലെങ്കിൽ ഒരു റെസിസ്റ്റർ പോലുള്ള ഒരൊറ്റ ഘടകത്തെ ബ്രാഞ്ച് പ്രതിനിധീകരിക്കുന്നു അതിനാൽ ഈ സാഹചര്യത്തിൽ ഇത് ശാഖയായി കണക്കാക്കാം ഇതിനെ ഒരു ശാഖയായി കണക്കാക്കാം ഇതിനെ ഒരു ശാഖയായി കണക്കാക്കാം ഇതും ഒരു ശാഖയായി കണക്കാക്കാം ഇതും ഒരു ശാഖയായി കണക്കാക്കാം അതിനാൽ അടിസ്ഥാനപരമായി വൈദ്യുത ഘടകങ്ങൾ ഉള്ള ഒരു വിഭാഗത്തെ ഒരു ബ്രാഞ്ച് എന്ന് വിളിക്കുന്നു ഇനി നമുക്ക് നോഡിനെക്കുറിച്ച് സംസാരിക്കാം രണ്ടോ അതിലധികമോ ശാഖകൾ തമ്മിലുള്ള ബന്ധത്തിന്റെ പോയിന്റാണ് നോഡ് ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഇത് നോഡാണ് കാരണം ഇത് ഇതും ഈ ബ്രാഞ്ചും ബന്ധിപ്പിക്കുന്നു അതിനാൽ രണ്ടോ അതിലധികമോ ശാഖകൾ തമ്മിലുള്ള ബന്ധമായിരിക്കും നോഡ് ഇവിടെ ഈ ചിത്രത്തിൽ നമുക്ക് മൂന്ന് നോഡുകൾ ഉണ്ട് നോഡ് എ നോഡ് ബി നോഡ് സി ഇപ്പോൾ ഈ ചിത്രത്തിൽ സി ഒരൊറ്റ നോഡ് അല്ല അതിൽ സർക്യൂട്ടിൽ ഉള്ള നാല് നോഡുകളും അടങ്ങിയിരിക്കുന്നു എന്നാൽ രണ്ട് നോഡുകളെ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ടുള്ള വയർ ആയിരിക്കാം രണ്ടിനും എല്ലായിപ്പോഴും ഒരേ പൊട്ടൻഷ്യൽ ആയിരിക്കാം ഇവയെ ഒരു നോഡ് സി കൊണ്ട് പ്രധിനിധികരിക്കാം അതിനാൽ ഇത് ഇങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അവയെല്ലാം ചേർക്കാനും ഒരൊറ്റ നോഡ് സൃഷ്ടിക്കാനും കഴിയും അതിനാൽ ഒടുവിൽ നിങ്ങൾക്ക് നാല് വ്യത്യസ്ത നോഡുകൾ ഉണ്ടെങ്കിൽ അത് ഒന്നുമല്ല നിങ്ങൾ ഒരു സിംഗിൾ നോഡിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കാരണം സർക്യൂട്ട് കോൺഫിഗറേഷനിൽ മാറ്റമില്ലാതെ നിങ്ങൾക് അവയെ ചേർക്കാൻ ആകും അതുപോലെ ഇതിലും നിങ്ങൾക്ക് മൂന്ന് നോഡുകൾ ഉണ്ടെങ്കിലും എല്ലാം നേരിട്ടുള്ള വയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ മൂന്ന് നോഡുകളും ഷോർട്ട് സർക്യൂട്ട് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് നോഡുകളെയും ഒരു നോഡ് ഉപയോഗിച്ച് തുല്യമായി പ്രതിനിധീകരിക്കാൻ കഴിയും ഇവിടെ b യിൽ നിങ്ങൾക്ക് മൂന്ന് നോഡുകൾ ഉണ്ടാകും പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ഒരു നോഡായി കണക്കാക്കപ്പെടുന്നു അതുപോലെ ഇതിനും നിങ്ങൾക്ക് നാല് നോഡുകൾ ഉണ്ട് എന്നാൽ ഈ നോഡുകളെ ബന്ധിപ്പിക്കുന്ന വയറുകളിൽ ഘടകങ്ങളില്ലാത്തതിനാൽ ഇത് ഒരൊറ്റ നോഡായി കണക്കാക്കപ്പെടുന്നു ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് നോഡായി കണക്കാക്കാം ഇനി എന്താണ് ലൂപ്പ് ലൂപ്പ് അടിസ്ഥാനപരമായി ഏത് സർക്യൂട്ടിലും അടച്ച പാതയാണ് ഒരു നോഡിൽ ആരംഭിച്ച് ഒരു കൂട്ടം നോഡുകളിലൂടെ കടന്നുപോകുകയും അവസാനം ഒന്നിലധികം തവണ ഒരു നോഡിലൂടെയും കടന്നുപോകാതെ ആരംഭ നോഡിലേക്ക് മടങ്ങുകയും ചെയ്തുകൊണ്ട് അടച്ച പാത രൂപപെടുന്നതിനെ ആണ് ലൂപ്പ് എന്ന് പറയുന്നത് അതിനാൽ ലൂപ്പ് കണ്ടെത്താൻ ആവശ്യപ്പെടുമ്പോൾ ഇതുപോലുള്ള സർക്യൂട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ അതിനർത്ഥം നിങ്ങൾ വിവിധ നോഡുകൾ കണ്ടെത്തി യഥാർത്ഥ നോഡിലേക്ക് മടങ്ങുകയാണെങ്കിൽ ഇത് ഒരു ലൂപ്പായി കണക്കാക്കുംശരി അല്ലെ മറ്റേതൊരു സ്വതന്ത്ര ലൂപ്പിന്റെ ഭാഗമല്ലാത്ത ഒരു ശാഖയെങ്കിലും ഈ പ്രത്യേക ലൂപ്പിൽ അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് സ്വതന്ത്രമാണെന്ന് പറയപ്പെടുന്നു ഇപ്പോൾ ലൂപ്പ് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് കാരണം സ്വതന്ത്ര ലൂപ്പുകളോ പാതയോ സ്വതന്ത്രമായ സമവാക്യങ്ങളിൽ കലാശിക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു സങ്കീർണ്ണ സർക്യൂട്ട് നൽകുകയും കിർചോഫിന്റെ വോൾട്ടേജ് നിയമം നടപ്പിലാക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ വിവിധ സ്വതന്ത്ര ലൂപ്പ് എന്താണെന്ന് നിങ്ങൾ ആദ്യം കണ്ടെത്തണം അതിനാൽ നിങ്ങൾ കണ്ടെത്തേണ്ട വിവിധ സമവാക്യങ്ങൾ അല്ലെങ്കിൽ യൂണിക് സൊല്യൂഷൻ എന്താണെന്ന് നിങ്ങൾക്ക് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും നിങ്ങൾക്ക് ആ പ്രത്യേക സർക്യൂട്ടിന്റെ ഉത്തരം ലഭിക്കും ഈ ചിത്രം കണ്ടാൽ എ ബി സി എ എന്നിവ ഈ രീതിയിൽ കണക്റ്റുചെയ്യുകയാണെങ്കിൽ എ ബി സി എ എന്നിവ ഒരു സ്വതന്ത്ര ലൂപ്പായി കണക്കാക്കപ്പെടും അല്ലെങ്കിൽ പകരമായി നിങ്ങൾക്ക് എ ബി സി എന്നിവ ഉപയോഗിച്ച് പോകാം അത് രണ്ട് ഓം റെസിസ്റ്റർ ഇൽ കൂടി പോകുന്നു a അത് മറ്റൊരു സ്വതന്ത്ര ലൂപ്പായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് അല്ലെങ്കിൽ മൂന്ന് ഓംസ് ബന്ധിപ്പിക്കാം അതും മറ്റൊരു സ്വതന്ത്ര ലൂപ്പായിരിക്കും അതിനാൽ മൂന്ന് കേസുകളിലും ലൂപ്പിലെ ഒരു ഘടകമെങ്കിലും മറ്റ് ലൂപ്പിന്റെ ഭാഗമല്ലെന്ന് നിങ്ങൾ കാണും അതിനാൽ ആ രീതിയിൽ നിങ്ങൾക്ക് നിരവധി ലൂപ്പുകൾ സൃഷ്ടിക്കാൻ കഴിയും ഇപ്പോൾ ചോദ്യം ഇതായിരിക്കും നിങ്ങൾക്ക് ശരിയായ എണ്ണം ലൂപ്പുകൾ ലഭിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ കണ്ടെത്തും അതിനായി നിങ്ങൾ നെറ്റ്വർക്കിന്റെ അടിസ്ഥാന സിദ്ധാന്തം ഉപയോഗിക്കുന്നു അതിനാൽ bln 1 l എന്നത് ലൂപ്പുകളുടെ എണ്ണം n എന്നത് നോഡുകളുടെ എണ്ണം b എന്നത് ശാഖകളുടെ എണ്ണം അതിനാൽ നിങ്ങൾക്ക് നോഡുകളുടെ എണ്ണം കണ്ടെത്താൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ശാഖകളുടെ എണ്ണം കണ്ടെത്താൻ കഴിയും അതിനാൽ ലൂപ്പുകളുടെ എണ്ണം എന്താണെന്ന് നിങ്ങൾക്ക് എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയും അതിനാൽ l എന്നാൽ ബി മൈനസ് എൻ പ്ലസ് വൺlb n1 അല്ലാതെ മറ്റൊന്നുമല്ല അതിനാൽ നിങ്ങൾ സൃഷ്ടിച്ച ലൂപ്പുകളുടെ എണ്ണം നിങ്ങൾക്ക് കണക്കാക്കാനും ലൂപ്പുകളുടെ എണ്ണം ഈ പ്രത്യേക സിദ്ധാന്തത്തെ തൃപ്തിപ്പെടുത്തുന്നുണ്ടോ എന്ന് കണ്ടെത്താനും ശ്രമിക്കാം ഇത് തൃപ്തികരമാണെങ്കിൽ അതിനർത്ഥം സർക്യൂട്ടിലെ ലൂപ്പുകളുടെ എണ്ണം നിങ്ങൾ കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ശ്രേണിയിൽ രണ്ടോ അതിലധികമോ ഘടകങ്ങൾ ഉണ്ട് അവ ഒരൊറ്റ നോഡ് മാത്രമായി പങ്കിടുന്നു തുടർന്ന് അവ ഒരേ വൈദ്യുതധാര വഹിക്കുമെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയും അതിനാൽ ശ്രേണിയിലും സമാന്തര സർക്യൂട്ട് വിശകലനത്തിലും നിങ്ങൾ ഇതിനകം കണ്ടുകഴിഞ്ഞു ഘടകങ്ങൾ ശ്രേണിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ ഒരൊറ്റ നോഡ് പങ്കിടുമെന്നും അവ ഒരേ അളവിലുള്ള കറന്റ് വഹിക്കുമെന്നും അർത്ഥമാക്കുന്നു ഇപ്പോൾ സമാന്തരമായി ബന്ധിപ്പിച്ചിരിക്കുന്ന രണ്ടോ അതിലധികമോ ഘടകങ്ങൾ ഉണ്ടെങ്കിൽ അവ ഒരേ രണ്ട് നോഡുകളുമായി ബന്ധിപ്പിക്കുകയും തന്മൂലം ഒരേ വോൾട്ടേജ് ലഭിക്കുകയും ചെയ്യുന്നു അതിനാൽ നോഡുകൾ ശ്രേണിയിൽ ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഘടകങ്ങളും ഒരൊറ്റ നോഡിലൂടെ ബന്ധിപ്പിക്കപ്പെടും അതിനാൽ അത്തരം സന്ദർഭങ്ങളിൽ രണ്ട് ഘടകങ്ങളിലും ഒരേ കറന്റ് ഒഴുകുന്നു ഇപ്പോൾ അവ സമാന്തരമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഘടകങ്ങൾ ഒരേ രണ്ട് നോഡുകളിലൂടെ ബന്ധിപ്പിക്കും അങ്ങനെയാണെങ്കിൽ രണ്ട് റെസിസ്റ്ററുകളിലുമുള്ള വോൾട്ടേജ് തുല്യമായിരിക്കും അതിനാൽ നിങ്ങൾക്ക് ഇതുപോലുള്ള നോഡ് കോൺഫിഗറേഷൻ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ കണക്റ്റുചെയ്തിട്ടുണ്ടെങ്കിൽ കറന്റ് സമാനമാകുമെന്നും ഈ രീതിയിൽ ആണ് കണക്ട് ചെയ്തട്ടുള്ളത് എങ്കിൽ വോൾട്ടേജ് തുല്യമാകുമെന്നും ഒരു ആശയം നൽകും അതിനാൽ ഇതുപയോഗിച്ച് നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുന്നു അടുത്ത സെഷനിൽ ശ്രെയണിയിലും സമാന്തരത്തിന്റെയും സർക്യൂട്ട് കോമ്പിനേഷൻ പോലെയുള്ള മറ്റ് ചില സർക്യൂട്ടുകൾ വിശകലനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കും അവ എങ്ങനെ എളുപ്പത്തിൽ മനസിലാക്കാം എങ്ങനെ വിശകലനം ചെയ്യണം അങ്ങനെ ആ സർക്യൂട്ടുകളുടെ പരിഹാരം കണ്ടെത്തുന്നത് നിങ്ങൾക്ക് വളരെ എളുപ്പമാണ്